അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണം ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് അത് വൻതോതിലുള്ള വ്യാവസായിക ഇൻറർനെറ്റ് നിർമ്മാണത്തിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതികവിദ്യയാണ് മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ ഞാൻ ഇതിനകം വിശകലനത്തിന്റെ ആവശ്യകത എടുത്തുകാണിച്ചു ഡാറ്റ ശരിയായി കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം വിശകലനം ചെയ്യേണ്ടതുണ്ട് IIoT സാഹചര്യങ്ങൾക്കായി വ്യവസായ സ്കെയിലിൽ ഞങ്ങൾ സംസാരിച്ച ഡാറ്റയും ഞങ്ങൾ കണ്ടു ഇത്തരത്തിലുള്ള ഡാറ്റയ്ക്ക് വലിയ ഡാറ്റയുടെ ഗുണങ്ങളുണ്ട് അവയ്ക്ക് വ്യത്യസ്ത വെല്ലുവിളികളുണ്ട് 3 V യുടെയും 5 V യുടെയും 7 V യുടെയും വ്യത്യസ്ത സ്വഭാവസവിശേഷതകളുള്ള ഘടനാപരമായ ഡാറ്റയാണ് ഇവ അതിനാൽ വലിയ ഡാറ്റയുടെ സവിശേഷതകളിലേക്ക് കൂടുതൽ കടക്കാതെ നിങ്ങൾ ഡാറ്റ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് ചോദ്യം അതിനാൽ ഒരു വിശകലന വീക്ഷണകോണിൽ നിന്ന് വ്യത്യസ്ത രീതികൾ എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നതിന് സ്വീകരിക്കാവുന്ന വ്യത്യസ്ത ഉപകരണങ്ങളും സാങ്കേതികതകളും എന്താണെന്ന് ഞങ്ങൾ ഇതിനകം കണ്ടു പക്ഷേ നിങ്ങൾ ഡാറ്റ എവിടെയാണ് സൂക്ഷിക്കുന്നത് നിങ്ങൾ എവിടെയാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുക അത് വളരെ പ്രധാനമാണ് വലിയ തോതിലുള്ള നടപ്പാക്കലുകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ സിംഗിൾ സെർവറുകൾ കുറഞ്ഞ ശേഷിയുള്ള സെർവറുകൾ എന്നിവയ്ക്കപ്പുറം നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് വലിയ തോതിലുള്ള സിംഗുലർ സെർവറുകളെക്കുറിച്ചല്ല മറിച്ച് സെർവറുകൾ സെർവർ സ്ഥാപനങ്ങൾ വ്യത്യസ്ത സെർവറുകളുടെ കണക്ഷൻ തുടങ്ങിയവയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇത് ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് എന്നാണ് അറിയപ്പെടുന്നത് അതിനാൽ ഒരു സാധാരണ ഡാറ്റാ സെന്ററിൽ എന്താണ് ഒരു ഡാറ്റ സെന്റർ എല്ലാ തരത്തിലുമുള്ള ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടേഷണൽ സൌകര്യങ്ങൾ ഉയർന്ന ശേഷി ഉയർന്ന പ്രകടനമുള്ള കമ്പ്യൂട്ടേഷണൽ സംവിധാനങ്ങൾ ഹൈ എൻഡ് പ്രോസസർ സൌകര്യങ്ങൾ എന്നിവയുള്ള ഒരു സൌകര്യമാണ് ഡാറ്റാ സെന്റർ അതിനാൽ എല്ലാം ഉയർന്ന നിലവാരമുള്ളതായിരിക്കണം പക്ഷേ അത് നിങ്ങൾക്ക് ഒരു ഡാറ്റ സെന്റർ മാത്രം നൽകുന്നു മിക്ക യഥാർത്ഥ ജീവിത വ്യാവസായിക ഐഒടി സാഹചര്യങ്ങളുടെയും ആവശ്യകതകൾ നിറവേറ്റാൻ ഒരൊറ്റ ഡാറ്റാ സെന്റർ പലപ്പോഴും പര്യാപ്തമല്ല ഈ സാഹചര്യത്തിൽ ഡാറ്റാ സെന്ററുകളുടെ ഒരു ശൃംഖല ആവശ്യമാണ് അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതാണ് അതിനാൽ ഡാറ്റാ സെന്റർ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകൾ എന്നിവയുടെ ആവശ്യകതയും അവ ഡാറ്റയുടെ ഉത്ഭവവും ഡാറ്റയുടെ വിശകലനവും തമ്മിലുള്ള വിടവ് എങ്ങനെ നികത്തുന്നുവെന്ന് മനസിലാക്കാൻ ഞങ്ങൾ ബന്ധിപ്പിക്കാൻ ശ്രമിക്കും അതിനാൽ വിശകലനം അടുത്തതായി വരും എന്നാൽ വരുന്ന ഡാറ്റ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും അതിനാൽ നിങ്ങൾ ഡാറ്റ സംഭരിക്കേണ്ടതുണ്ട് ഈ ഡാറ്റ കേന്ദ്രങ്ങളിലും ഡാറ്റ സെന്റർ നെറ്റ്വർക്കുകളിലും നിങ്ങൾ ഡാറ്റ പ്രോസസ്സ് ചെയ്യണം അതാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് ഇവിടെ അതിനാൽ ഒരു ഡാറ്റ സെന്റർ എന്താണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ നെറ്റ്വർക്ക് നെറ്റ്വർക്ക് കമ്പ്യൂട്ടറുകൾ നെറ്റ്വർക്ക്ഡ് സെർവറുകൾ ഒരുമിച്ച് നെറ്റ്വർക്കുചെയ്ത നെറ്റ്വർക്ക് സ്റ്റോറേജ് എന്നിവയുള്ള ഉയർന്ന നിലവാരമുള്ള കമ്പ്യൂട്ടേഷണൽ സൌകര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് ഈ വൻകിട സംരംഭങ്ങളിൽ ഭൂരിഭാഗവും അവരുടെ വിവര സംവിധാനങ്ങൾ ഈ ഡാറ്റാ സെന്ററുകളെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു ഈ ഡാറ്റയാണ് ഈ ഡാറ്റയെല്ലാം സംഭരിക്കുന്നതെന്ന് ഈ പേര് സൂചിപ്പിക്കുന്നു ഡാറ്റാ സെന്ററുകളുടെ വ്യത്യസ്ത ഉദാഹരണങ്ങൾ ഇവിടെയുണ്ട് ഡാറ്റാ സെന്ററുകൾ വളരെ വ്യാപകമായി ലഭ്യമാണ് ഗൂഗിൾ ആമസോൺ സിസ്കോ തുടങ്ങിയ വൻകിട കമ്പനികൾക്ക് സ്വന്തമായി ഡാറ്റാ സെന്ററുകൾ ഉണ്ട് മറ്റുള്ളവർ ഡാറ്റാ സെന്റർ വാടകയ്ക്ക് എടുക്കുന്നു സ്വന്തമായി ഡാറ്റാ സെന്ററുകളുള്ള മറ്റ് നിരവധി കമ്പനികളുണ്ട്കൂടാതെ ഡാറ്റാ സെന്ററുകൾ പരിപാലിക്കുന്നത് മറ്റൊരു വിഷയമാണ് അതിനാൽ ഞങ്ങൾ അതിലേക്ക് കടക്കില്ല പക്ഷേ ഒരു ഡാറ്റാ സെന്റർ എന്നതിനപ്പുറം മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഇവിടെ ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു ഡാറ്റാ സെന്ററിനെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു ഡാറ്റാ സെന്ററിന്റെ നെറ്റ്വർക്കിനെക്കുറിച്ചാണ് കാരണം അതാണ് കൂടുതൽ പ്രസക്തമായത് അത് IIoT സന്ദർഭങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കുന്നു അതിനാൽ ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിൽ അടിസ്ഥാനപരമായി കമ്പ്യൂട്ടേഷണൽ സ്റ്റോറേജ് നെറ്റ്വർക്ക് എന്റിറ്റികൾ എന്നിവ ഉൾപ്പെടുന്ന ഈ വ്യത്യസ്ത ഡാറ്റാ സെന്റർ റിസോഴ്സുകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ വ്യത്യസ്ത ഡാറ്റാ സെന്ററുകൾ പരസ്പരം ബന്ധിപ്പിക്കപ്പെടും അത് കാലാകാലങ്ങളിൽ വരാൻ പോകുന്ന വ്യത്യസ്ത ഡാറ്റാ ലോഡുകൾ കൈകാര്യം ചെയ്യുന്നതുൾപ്പെടെ വ്യത്യസ്ത രീതികളിൽ സഹായിക്കും അതിനാൽ നിങ്ങൾക്ക് ഈ നെറ്റ്വർക്ക് പരസ്പരബന്ധിതമായ ഡാറ്റാ സെന്ററുകൾ ഉണ്ടെങ്കിൽ ശരിയായ രീതിയിൽ ലോഡ് ബാലൻസായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന കാലാകാലങ്ങളിൽ വരാൻ പോകുന്ന തരത്തിലുള്ള ഡാറ്റ ലോഡുകളും കണക്കുകൂട്ടൽ ലോഡുകളും കൈകാര്യം ചെയ്യുക അതിനാൽ ഞങ്ങൾ കൂടുതൽ മുന്നോട്ട് പോകുന്നതിനുമുമ്പ് ഒരു ഡാറ്റാ സെന്റർ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് ചിത്രപരമായി കാണിച്ചുതരാം അതിനാൽ ഒരു സാധാരണ ഡാറ്റാ സെന്ററിൽ ഞാൻ ഒരു ഡാറ്റാ സെന്ററിന്റെ വാസ്തുവിദ്യ കാണിക്കാൻ പോകുന്നു അതിനാൽ ഒരു സാധാരണ ഡാറ്റാ സെന്ററിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു സാധാരണ ഡാറ്റാ സെന്ററിൽ വ്യത്യസ്ത കമ്പ്യൂട്ടേഷണൽ റിസോഴ്സുകളുടെയും സെർവറുകളുടെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിനെക്കുറിച്ചാണ് സെർവറുകളുടെ ഒരു ശൃംഖലയല്ല മറിച്ച് ഒരു സെർവറിന്റെ നെറ്റ്വർക്കാണ് കൂടാതെ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിൽ നമ്മൾ സംസാരിക്കുന്നത് ഇന്റർനെറ്റ് ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്ററുകളെക്കുറിച്ചാണ് അതിനാൽ നമുക്ക് ഈ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളെക്കുറിച്ചും അവ എങ്ങനെ കാണപ്പെടുന്നുവെന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം അതിനാൽ ഒരു സാധാരണ ഡാറ്റാ സെന്ററിൽ വ്യത്യസ്ത സെർവറുകൾ എന്ന് നമുക്ക് പറയാം സെർവർ 1 സെർവർ 2 സെർവർ n എന്ന് പറയാം അതിനാൽ ഇത് ഒരു സ്വിച്ച് വഴി ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു എഡ്ജ് ഉപകരണമാണ് അതിനാൽ നമ്മൾ സംസാരിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യത്യസ്ത സെർവറുകളെക്കുറിച്ചാണ് അതിനാൽ ഇത് ഒരു റാക്ക് എന്നറിയപ്പെടുന്ന ഒന്നായി മാറുന്നു അതിനാൽ ഇത് റാക്ക് 1 ആണെന്ന് നമുക്ക് പറയാം ഓരോ റാക്കിനും TOR എന്നറിയപ്പെടുന്ന എന്തെങ്കിലും ഉണ്ട് TOR സ്വിച്ച് ഇത് അടിസ്ഥാനപരമായി ഒരു സ്വിച്ച് ആണ് ഇത് റാക്കിലെ ഈ വ്യത്യസ്ത വ്യക്തിഗത സെർവറുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ ഇതിന് മറ്റ് മാനേജ്മെന്റും പരിപാലന ശേഷിയും ഉണ്ട് അതിനാൽ ഇത് ഒരു സ്വിച്ച് പോലെയാണ് ഇത് ടോർ എന്നാൽ റാക്ക് ടോപ്പ് എന്നാണ് അറിയപ്പെടുന്നത് അതിനാൽ ഞങ്ങൾക്ക് എല്ലാ റാക്കിലും ഒരു സ്വിച്ച് ഉണ്ട് അത് നിയന്ത്രിക്കപ്പെടുന്നു ഇത് അടിസ്ഥാനപരമായി വ്യത്യസ്ത സെർവറുകളുടെ എണ്ണം നിയന്ത്രിക്കുന്നു അതിനാൽ ഞങ്ങൾക്ക് ഒരു TOR ഉണ്ട് മറ്റൊരു TOR സെർവർ സെർവർ 1 സെർവർ 2 ലേക്ക് സെർവർ n എന്നിവ ഉപയോഗിച്ച് നമുക്ക് മറ്റൊരു റാക്ക് ഉണ്ട് അതിനാൽ n 5 6 10 ന് തുല്യമാകാം അല്ലെങ്കിൽ റാക്ക് തരം അനുസരിച്ച് എന്തുതന്നെയായാലും ഇതുപോലുള്ള മറ്റ് എഡ്ജ് ഉപകരണങ്ങൾ ഞങ്ങൾക്ക് ഒരു ഡാറ്റാ സെന്ററിൽ ഉണ്ടാകും അതിനാൽ ഞങ്ങൾക്ക് ഈ വ്യത്യസ്ത TOR കളും വ്യത്യസ്ത സെർവറുകളും ഉണ്ടാകും ഇത് റാക്ക് റാക്ക് n റാക്ക് 2 റാക്ക് 3 റാക്ക് 4 റാക്ക് n എന്നിവ ആയിരിക്കും അതിനാൽ ഇവയെല്ലാം നമുക്ക് ലഭിക്കും അതിനാൽ ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിലെ അടുത്ത ലെയർ ഒരുതരം അഗ്രഗേറ്ററായിരിക്കും ഈ അഗ്രഗേറ്റർ മറ്റൊരു സ്വിച്ച് ആണ് ഇത് വ്യത്യസ്ത റാക്ക് ഉപകരണങ്ങളെ കൂട്ടിച്ചേർക്കാൻ പോകുന്നു ഇത് മറ്റൊരു അഗ്രഗേറ്ററാണ് അതിനാൽ ഇത് ഇവിടെ അഗ്രം ലെയറായിരുന്നു നിങ്ങൾക്ക് അഗ്രഗേറ്റർ ലെയർ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത അഗ്രഗേറ്ററുകൾ എല്ലാം ഉണ്ട് നിങ്ങൾക്ക് കോർ ലെവൽ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കോർ ലെവൽ സ്വിച്ചുകൾ ഉണ്ട് ഇത് കോർ 1 കോർ 2 മുതലായവയാണ് ഇവയെല്ലാം കോർ ലെവൽ സ്വിച്ചുകളാണ് അവ അടിസ്ഥാനപരമായി വീണ്ടും ഉയർന്ന തലത്തിൽ കൂട്ടിച്ചേർക്കുന്നു അതിനാൽ ഈ കോർ ലെവൽ സ്വിച്ചുകൾ കൂടുതൽ ശക്തമായ സ്വിച്ചുകളാണ് തുടർന്ന് നിങ്ങൾക്ക് ഈ കോർ സ്വിച്ചുകൾ ഇന്റർനെറ്റിലേക്ക് കണക്റ്റുചെയ്യുന്നു അതിനാൽ ഇത് അടിസ്ഥാനപരമായി സാധാരണ ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് വാസ്തുവിദ്യ എങ്ങനെയാണ് എങ്ങനെ കാണപ്പെടുന്നു അതിനാൽ കോർ അടിസ്ഥാനപരമായി 10 ജിഗാബൈറ്റ് സ്വിച്ചുകൾ ഈ കാമ്പിനെ പിന്തുണയ്ക്കും ഇവിടെയും നിങ്ങൾക്ക് അഗ്രഗേറ്റർ തലത്തിൽ 10 ജിബി സ്വിച്ചുകൾ പോലെയുമുണ്ടാകും അതേസമയം ലഭ്യമായ ഉറവിടങ്ങളെയും ക്ലയന്റിന്റെ പ്രത്യേക ആവശ്യകതകളെയും ആശ്രയിച്ച് നിങ്ങൾക്ക് 1 ജിബിയുടെ കുറവ് അല്ലെങ്കിൽ 10 ജിബി വരെയാകാം അതിനാൽ ഇത് എങ്ങനെ കാണപ്പെടുന്നു എന്നത് ഒരു സാധാരണ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കാണ് അതിനാൽ നമുക്ക് ഇപ്പോൾ മുന്നോട്ട് പോയി കൂടുതൽ മുന്നോട്ട് പോയി ഈ ഡാറ്റാ സെന്ററുകളുടെ വ്യത്യസ്ത സവിശേഷതകൾ നോക്കാം അതിനാൽ ഈ പ്രത്യേക ചിത്രത്തിൽ വലതുവശത്ത് നിങ്ങൾ കാണുന്നത് ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിന്റെ ഒരു ചിത്രമാണ് അതിനാൽ ഇത് ഒരു നെറ്റ്വർക്കാണ് ഇത് ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് ചിത്രമാണ് ഇവിടെ ഇത് വ്യത്യസ്ത സെർവറുകൾ പോലെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും വ്യത്യസ്ത ഗ്രീൻ ലൈറ്റുകൾ കാണിക്കുന്നു ഇത് വ്യത്യസ്ത സെർവറുകളാണ് ഇവയിൽ ഓരോന്നും ഒരു റാക്ക് പോലെ നിങ്ങൾക്ക് വ്യത്യസ്തമായ മറ്റ് റാക്കുകൾ ഉണ്ട് ഓരോ റാക്ക്ക്കും അതിന്റേതായ TOR ഉണ്ട് അതിനാൽ അവയ്ക്ക് അവരുടേതായ വ്യത്യസ്ത TOR ഉണ്ട് അതിനാൽ ഒരു ഡാറ്റാ സെന്റർ എന്താണെന്നും യഥാർത്ഥ ജീവിതത്തിൽ ഇത് എങ്ങനെയാണെന്നും മറ്റും നിങ്ങൾക്ക് അൽപ്പം കൂടി ആശയം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിൽ തിരയുമ്പോൾ ധാരാളം വീഡിയോകൾ ലഭ്യമാണ് എനിക്ക് രണ്ട് വ്യത്യസ്ത റഫറൻസുകൾ ഉണ്ട് ഒരു ഗൂഗിൾ ഡാറ്റാ സെന്റർ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നിങ്ങൾക്ക് ഇവിടെ നൽകിയിരിക്കുന്നു അതിനാൽ ഈ പ്രത്യേക റഫറൻസ് ഉള്ളിലുള്ള ഗൂഗിൾ ഡാറ്റ സെന്റർ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും അതിനാൽ അവർക്ക് സ്വന്തമായി വീഡിയോകളുണ്ട് ഞാൻ അത് പ്ലേ ചെയ്യാൻ പോകുന്നില്ല പക്ഷേ ഗൂഗിൾ ഡാറ്റാ സെന്ററും അതിന്റെ ലിങ്കും ഈ പ്രത്യേക സ്ലൈഡിൽ നൽകിയിരിക്കുന്നു അതിനാൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോയി ഈ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളുടെ വ്യത്യസ്ത സവിശേഷതകൾ നോക്കാൻ ശ്രമിക്കാം ഇതെല്ലാം ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല കാരണം ഇത് നിങ്ങൾക്ക് സ്വന്തമായി മനസ്സിലാകും അതിനാൽ അടിസ്ഥാനപരമായി ഇവ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളുടെ ചില അഭികാമ്യമായ സവിശേഷതകളാണ് ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് സ്ഥിരതയുള്ളതും സുരക്ഷിതവും വിശ്വസനീയവും വ്യത്യസ്ത നെറ്റ്വർക്ക് ആവശ്യകതകളെ പിന്തുണയ്ക്കുകയും സ്കെയിലബിൾ ആയിരിക്കുകയും ചടുലമായിരിക്കുകയും വേണം അതിനാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഇവയിൽ നിന്നെല്ലാം ഞാൻ എജിലിറ്റി പ്രോപ്പർട്ടി സംക്ഷിപ്തമായി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിന് ഏത് സമയത്തും ഏത് സെർവറിലും ഏത് തരത്തിലുള്ള സേവനവും നൽകാൻ കഴിയും ഇത് ഒരു ഡിസിഎനിന്റെ ചടുലസ്വഭാവം എന്നറിയപ്പെടുന്നു ഞാൻ പറഞ്ഞതുപോലെ മറ്റ് സ്വത്തുക്കൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എനിക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല അതിനാൽ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകൾക്ക് അവരുടേതായ വ്യക്തിഗത ആവശ്യകതകളുണ്ട് വിഎം ഐപി വിലാസം മാറ്റാതെ മൈഗ്രേഷൻ പിന്തുണയ്ക്കണം ഇത് ഐപി വിലാസം മാറ്റാതെ തന്നെ വളരെ പ്രധാനമാണ് വിഎം മൈഗ്രേഷൻ വിഎം എന്നത് വെർച്വൽ മെഷീനാണ് അതിനാൽ അവസാനം ഉപയോക്താവിന് അന്തിമ ഉപയോക്താവിന് ഒരു വെർച്വൽ മെഷീൻ ലഭിക്കുന്നു കൂടാതെ ഒരു പ്രത്യേക ഫിസിക്കൽ മെഷീനിലേക്ക് അതിന്റെ പ്രത്യേക ഐപി ഉണ്ട് അതിനാൽ അന്തിമ ഉപയോക്താവിന് അതിന്റേതായ ഐപി ഉള്ള ഒരു വെർച്വൽ മെഷീൻ ഉണ്ട് അതിനാൽ അത് ബന്ധിപ്പിക്കുന്ന ഫിസിക്കൽ മെഷീൻ അതിന്റെ ഐപി മാറ്റിയാലും ഇതിനർത്ഥം ഇത് മെഷീൻ ഇപ്പോഴും അന്തിമ ഉപയോക്താവിലേക്ക് മാറ്റുന്നു ഈ പ്രത്യേക വെർച്വൽ മെഷീനും അതിന് ലഭിച്ച അനുബന്ധ ഐപി വിലാസവും മാറാൻ പോകുന്നില്ല എന്നാണ് അതിനാൽ അടിസ്ഥാനപരമായി ഈ ഐപി വിലാസം ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളുടെ കാര്യത്തിൽ വിഎം മൈഗ്രേഷന്റെ കാര്യത്തിൽ മാറുന്നില്ല രണ്ടാമത്തെ ആവശ്യകത വിന്യാസത്തിന് മുമ്പ് സ്വിച്ച് ക്രമീകരിക്കേണ്ട ആവശ്യമില്ല എന്നതാണ് അതിനാൽ നിങ്ങൾ ആദ്യം സെർവറുകൾ വിന്യസിക്കുക തുടർന്ന് നിങ്ങൾ സ്വിച്ചുകൾ വിന്യസിക്കുക അതിനുശേഷം നിങ്ങൾ ഈ പ്രത്യേക കാര്യം കൂടുതൽ വിപുലീകരിക്കുക അതുവഴി നിങ്ങൾ അത് കൂടുതൽ അളക്കുക അതിനാൽ സെർവറുകൾ മാറുക നിങ്ങൾ കൂടുതൽ സ്കെയിൽ ചെയ്യുക അന്തിമ ഉപയോക്താക്കൾക്കിടയിൽ ആശയവിനിമയം നടത്താൻ പാത്ത് ലഭ്യമാകണം എന്നതാണ് മൂന്നാമത്തെ ആവശ്യം അന്തിമ ഉപയോക്താക്കൾക്ക് ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിൽ വ്യത്യസ്ത പാതകൾ ഉണ്ടായിരിക്കണം ഇത് വ്യത്യസ്ത ഉപയോക്താക്കൾക്കിടയിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ആശയവിനിമയം നടത്താൻ അവരെ സഹായിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഇത് പൂർണ്ണമായും നെറ്റ്വർക്ക് ചെയ്യേണ്ടതുണ്ട് അത് പൂർണ്ണമായി നെറ്റ്വർക്ക് ആയിരിക്കണം ഇത് വളരെ പ്രധാനമാണ് പൂർണ്ണ നെറ്റ്വർക്ക് എന്നാൽ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് വരുന്ന ചലനാത്മക ആവശ്യകതകൾക്കനുസരിച്ച് വ്യത്യസ്ത പാതകൾ നേടാൻ കഴിയൂ നാലാമത്തെയും അഞ്ചാമത്തെയും സവിശേഷതകൾ നന്നായി മനസ്സിലാക്കാം അതിനാൽ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാജയം കണ്ടുപിടിക്കാൻ കഴിയണം അതിനാൽ സ്വയം സുഖപ്പെടുത്തുന്ന സ്വഭാവം അതിനർത്ഥം ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് സ്വന്തമായി സുഖപ്പെടുത്താൻ കഴിയണം അവിടെയുള്ള നിർദ്ദിഷ്ട ഘടകം നന്നാക്കാൻ കഴിയണം എന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് പരാജയപ്പെട്ടതോ പരാജയപ്പെടാൻ പോകുന്നതോ ആയത് സ്വന്തമായി നന്നാക്കണം അടിസ്ഥാനപരമായി ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിന്റെ സ്വയം സുഖപ്പെടുത്തുന്ന സ്വത്താണ് ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് കഴിയുന്നത്ര സ്വയംഭരണാധികാരമുള്ളതായിരിക്കണം അതിനാലാണ് ഈ വ്യത്യസ്ത പ്രതീക്ഷകളും ആവശ്യകതകളും ഉയർന്നുവരുന്നത് അതിനാൽ ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് വളരെ വലുതാണ് നിങ്ങൾക്ക് ഒരു വലിയ കമ്പ്യൂട്ടേഷണൽ റിസോഴ്സ് പോലുള്ള ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് അമൂർത്തമാക്കാൻ കഴിയും അതിൽ വലിയ പ്രോസസ്സിംഗ് വലിയ സംഭരണം ഭീമമായ കണക്കുകൂട്ടൽ ഉറവിടങ്ങൾ എന്നിവയുണ്ട് അത് ആവശ്യാനുസരണം ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും അതിനാൽ അവർ സ്വയം സ്വയംഭരണാധികാരമുള്ളവരായിരിക്കണം അവർ സ്വയം നന്നാക്കണം ഏതെങ്കിലും തരത്തിലുള്ള പരാജയം ഉണ്ടാകുമ്പോഴെല്ലാം പരാജയം കണ്ടെത്തുന്നതും ഈ പ്രത്യേക സ്വയംഭരണ ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് സംവിധാനത്തിലൂടെയാണ് ഡാറ്റാ സെന്ററുകളുടെ വ്യത്യസ്ത ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഉപയോക്താക്കൾക്ക് വെബ് പേജുകൾ നൽകുന്നത് പോലുള്ള ബാഹ്യ അഭിമുഖമായ ആപ്ലിക്കേഷനുകൾ വെബ് ഇൻഡെക്സിംഗിനായി ഉപയോഗം ഒന്നിലധികം കൺകറന്റ് സേവനങ്ങൾ പ്രവർത്തിപ്പിക്കൽ എന്നിവയിലൂടെയുള്ള ആന്തരിക കണക്കുകൂട്ടൽ ആപ്ലിക്കേഷനുകൾ കൂടാതെ മറ്റു പലതും ഇവയാണ് ഡാറ്റാ സെന്ററും ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളും ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിനെ പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത ടോപ്പോളജികൾ എന്നിവയാണ് ഈ നാല് വ്യത്യസ്ത ഡാറ്റകൾ ലഭ്യമായ സെന്റർ നെറ്റ്വർക്ക് ടോപ്പോളജികൾ അതിനാൽ ഇവയിൽ ചിലതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കട്ടെ അതിനാൽ ഞങ്ങൾ 3 ടയർ ഡിസിഎൻ വാസ്തുവിദ്യ ഉപയോഗിച്ച് ആരംഭിക്കും അതിനാൽ തുടക്കത്തിൽ ഞാൻ ചർച്ച ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഒരു ഡിസിഎൻ എന്ന ആശയം ഞാൻ വിശദീകരിച്ചപ്പോൾ TOR മുതലായ ഒരു റാക്കിലെ വ്യത്യസ്ത സെർവറുകൾ അടങ്ങുന്നതായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്നു അതിനാൽ നിങ്ങൾക്ക് എഡ്ജ് ഉണ്ട് നിങ്ങൾക്ക് അഗ്രഗേറ്റർ ലെയർ ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് കോർ ഉണ്ട് പക്ഷേ നമുക്ക് അത് മറ്റൊരു കാഴ്ചപ്പാടിൽ നിന്ന് നോക്കാം അതിനാൽ നമുക്ക് ഏറ്റവും താഴെയായി എന്താണ് ലഭിക്കാൻ പോകുന്നത് ഏറ്റവും താഴെയായി നമുക്ക് ലഭിക്കാൻ പോകുന്നത് വ്യത്യസ്ത സെർവറുകളാണെന്ന് പറയാം അഗ്രഗേറ്റർ ഉപകരണം എന്നറിയപ്പെടുന്ന ഈ ഉപകരണങ്ങളുമായി ഈ സെർവറുകൾ പരസ്പരം ബന്ധിപ്പിക്കും അതിനാൽ ഇത് നിങ്ങളുടെ അഗ്രഗേഷൻ ലെയറായി മാറുന്നു ഇത് നിങ്ങളുടെ TOR ആയി മാറുന്നു ഓരോ റാക്കിലും ഒരു TOR ഉള്ള റാക്കിലെ സെർവറുകൾ അതിനാൽ ഇത് TOR ലെയർ ആണെന്ന് നമുക്ക് പറയാം ഇത് സമാഹരണ പാളിയാണ് എന്നിട്ട് മുകളിൽ ഇത് ഇതും ഇതുപോലെയുമാകാം എന്ന് പറയാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിക്കും സമാഹരണം അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചെയ്യട്ടെ ഇവയെല്ലാം സെർവറുകളുള്ള വ്യത്യസ്ത വ്യക്തിഗത റാക്കുകൾ പോലെയാണെന്ന് നമുക്കറിയാം ഇതിനെയാണ് നമുക്ക് ഈ അഗ്രഗേഷൻ ലെയർ ഒരു TOR ലെയർ പോലെയുണ്ടെന്ന് വിളിക്കാനാകുന്നത് കൂടാതെ ഇത് നമുക്ക് മറ്റൊരു ലെയറിനെക്കുറിച്ച് ചിന്തിക്കാം അത് അഗ്രഗേഷൻ ലെയറാണ് അത് സ്വന്തമായി കൂട്ടിച്ചേർത്ത സ്വിച്ചുകളുണ്ട് തുടർന്ന് ഇതിന് വീണ്ടും നമുക്ക് ഈ കോർ ഉണ്ടാകും ഇതാണ് കാമ്പ് അതിനാൽ കൃത്യമായും ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ തുടക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ച ഒരു കാര്യമാണ് ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിന്റെ ആർക്കിടെക്ചർ നിങ്ങൾക്ക് വിശദീകരിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഇതുപോലൊന്ന് ആവർത്തിക്കാനാകും അതിനാൽ ഇത് ഒരു ഡാറ്റാ സെന്ററായി മാറുന്നു ഇത് മറ്റൊരു ഡാറ്റാ സെന്ററായി മാറുന്നു അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റൊന്ന് ലഭിക്കും അതിനാൽ ഇത് നിങ്ങളുടേതാണ് ഇത് നിങ്ങളുടെ വ്യത്യസ്ത സെർവറുകളാണ് അതിനാൽ നിങ്ങളുടെ അഗ്രഗേറ്റർ ഇതുപോലെ നിങ്ങൾക്ക് ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കോർ ഉണ്ട് ഇതാണ് നിങ്ങളുടെ കാമ്പ് അതിനാൽ ഇത് ഇതുപോലെയാകാം ഇത് ഇതുപോലെയാകാം അതുപോലെതന്നെ ഇവിടെയും 3 ടയർ ഡിസിഎന്നിന്റെ സൌന്ദര്യം ഇത്തരത്തിലുള്ള കണക്ഷനുകൾ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഇതുപോലുള്ള എന്തെങ്കിലും ഉണ്ടായിരിക്കാം അതിനാൽ ഇത് സാധ്യമാകും അതിനാൽ നിങ്ങൾക്ക് ഏറ്റവും താഴെയുള്ള പാളിയിൽ റാക്കുകളും സെർവറുകളുമുള്ള ഒരു വലിയ ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ ടോർ ലെയർ ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് ഈ അഗ്രഗേഷൻ ലെയർ ഉണ്ട് തുടർന്ന് നിങ്ങൾക്ക് ഈ കോർ ലെയർ ഉണ്ട് അതിനാൽ TOR അഗ്രഗേഷൻ കോർ ഇവ 3 വ്യത്യസ്ത നിരകളാണ് അതിനാൽ ഇത് നിങ്ങളുടെ ടയർ 1 ടയർ 2 ടയർ 3 ആകുന്നു അതിനാൽ ഒരു 3 ടയർ ഡിസിഎൻ ഇങ്ങനെയാണ് അതിനാൽ നമുക്ക് ഒരിക്കൽക്കൂടി തിരികെ പോയി ഒരു 3 ടയർ ഡിസിഎന്റെ സവിശേഷതകൾ നോക്കാം അതിനാൽ നമ്മൾ കണ്ടതുപോലെ ഒരു 3 ടയർ ഡിസിഎൻ ഒരു ട്രീ ബേസ്ഡ് നെറ്റ്വർക്ക് ടോപ്പോളജിയും ട്രീ ടോപ്പോളജിയിൽ ഒന്നിലധികം വേരുകളുമുണ്ട് അതിനാൽ ഒന്നിലധികം വേരുകളുള്ള ഒന്നിലധികം മരങ്ങൾ ഒന്നിച്ച് നെറ്റ്വർക്ക് ചെയ്തിരിക്കുന്നു ഇത് നിങ്ങളുടെ 3 ടയർ ഡിസിഎൻ ആണ് നെറ്റ്വർക്ക് സ്വിച്ചുകളുടെ കോർ അഗ്രഗേറ്റ് എഡ്ജ് എന്നിങ്ങനെ വ്യത്യസ്ത പാളികൾ ഉണ്ട് തുടർന്ന് ഇവിടെ പട്ടികപ്പെടുത്തിയിരിക്കുന്ന വ്യത്യസ്ത ദോഷങ്ങളുമുണ്ട് സ്കേലബിലിറ്റിയുടെ ദോഷങ്ങൾ തെറ്റ് സഹിഷ്ണുത ഉർജ്ജ കാര്യക്ഷമത ക്രോസ് സെക്ഷണൽ ബാൻഡ്വിഡ്ത്ത് ഇവയാണ് ഈ വ്യത്യസ്ത പരിമിതികളിൽ ചിലത് അല്ലെങ്കിൽ 3 ടയർ ഡിസിഎന്റെ പോരായ്മകൾ അതിനാൽ ഡിസിഎനിൽ പിന്തുണയ്ക്കുന്ന വ്യത്യസ്ത നെറ്റ്വർക്ക് ടോപ്പോളജികൾ മനസിലാക്കാൻ ഞങ്ങളുടെ സമയം ഉപയോഗിക്കാൻ അനുവദിക്കുന്നതിനുപകരം ഈ വ്യത്യസ്ത ദോഷങ്ങളെക്കുറിച്ച് ഞങ്ങൾ വിശദീകരിക്കാൻ പോകുന്നില്ല അതിനാൽ അടുത്തതായി നമ്മൾ കടന്നുപോകാൻ പോകുന്നത് ഫാറ്റ് ട്രീ ഡിസിഎൻ ആണ് അതിനാൽ ഈ പ്രത്യേക ഫാറ്റ് ട്രീ ഡിസിഎൻ വാസ്തുവിദ്യ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാൽ ഞങ്ങൾക്ക് ഒരു ഫാറ്റ് ട്രീ ഡിസിഎൻ ആർക്കിടെക്ചർ ഉണ്ട് അതിലെന്താണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാൻ പോകുന്നത് അതിനാൽ ഫാറ്റ് ട്രീ വാസ്തുവിദ്യയിൽ നിങ്ങൾക്ക് ഒരു കെ ആരി ട്രീ വാസ്തുവിദ്യ ഉണ്ടായിരിക്കാം അതിനാൽ കെ ഏത് പൂർണ്ണസംഖ്യയായാലും അത് 2 3 4 ആകാം അതിനാൽ കെ ആരി അതിനാൽ ഇത് 2 ആരി 3 ആരി 4 ആരി അങ്ങനെയാകാം അതിനാൽ DCN ന്റെ 4 ഏരി ഫാറ്റ് ട്രീ വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാൻ പോകുന്നു അതിനാൽ 4 ആരി ഫാറ്റ് ട്രീ വാസ്തുവിദ്യയിൽ ഇത് ഇതുപോലെയായിരിക്കും അതിനാൽ പോഡ്സ് എന്നറിയപ്പെടുന്ന ചില ആശയങ്ങൾ ഉണ്ട് അതിനാൽ വ്യത്യസ്ത പോഡുകൾ ഉണ്ട് അതിനാൽ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത സെർവറുകളോ കമ്പ്യൂട്ടറുകളോ മറ്റോ ഉണ്ടെന്ന് നമുക്ക് പറയാം അതിനാൽ ഇവ ചില സ്വിച്ചുകളുമായി ബന്ധിപ്പിക്കാൻ പോകുന്നു ഇത് നിങ്ങളുടെ സ്വിച്ചുകൾ ഈ സ്വിച്ചുകൾ നിങ്ങളുടെ അന്തിമ ഉപകരണങ്ങൾ ഈ കമ്പ്യൂട്ടറുകൾ മുതലായവയാണ് ഇത് ഒരു പോഡ് എന്നറിയപ്പെടുന്നു അതിനാൽ ഇവിടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇതാണ് നിങ്ങളുടെ പോഡ് അതിനാൽ ഈ പോഡ് വീണ്ടും ഈ രീതിയിൽ മറ്റ് ചില സ്വിച്ചുകളുമായി ബന്ധിപ്പിക്കും ഇത് വീണ്ടും നിങ്ങളുടെ അഗ്രഗേഷൻ ലെയറായി മാറുന്നു ഇത് നിങ്ങളുടെ എഡ്ജ് ലെയറായി മാറുന്നു ഒടുവിൽ ഇവ എവിടെയാണ് ബന്ധിപ്പിക്കാൻ പോകുന്നതെന്ന് മുമ്പത്തെപ്പോലെ നിങ്ങൾക്ക് കോർ ലെയറും ഉണ്ടാകും അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റൊരു പോഡ് ഉണ്ടാകാൻ പോകുന്നു അതിനാൽ നിങ്ങൾക്ക് മറ്റൊരു പോഡ് ഉണ്ടാകും ഇത് നിങ്ങളുടെ സെർവറാണ് അതിനാൽ ഇവയാണ് ഇവയാണ് ഇവയാണ് സ്വിച്ചുകൾ ഇവ നിങ്ങളുടെ വ്യത്യസ്ത സെർവറുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവയാണ് അതിനാൽ നിങ്ങൾക്ക് മറ്റൊരു പോഡ് പോഡ് 1 അതിനാൽ പോഡ് 1 മുമ്പത്തെപ്പോലെ മറ്റ് സ്വിച്ചുകളുമായി ഈ രീതിയിൽ ബന്ധിപ്പിക്കും വീണ്ടും ഇത് ഈ കാറുമായി ബന്ധിപ്പിക്കും അതിനാൽ ഇത് നിങ്ങളുടെ കാമ്പ് ആണ് തുടരാൻ പോകുന്നു ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഓരോ പോഡുകളും അത് ബന്ധിപ്പിക്കുന്ന അനുബന്ധ സ്വിച്ചുകളും ഉണ്ടായിരിക്കും ഇത് ഞങ്ങളെ ഇത് ഏറ്റെടുക്കാൻ അനുവദിക്കും ഇത് ഈ കോർ സ്വിച്ച് ബന്ധിപ്പിക്കും ഇത് ഇതുമായി ബന്ധിപ്പിക്കും കോർ സ്വിച്ച് വീണ്ടും ഇതൊന്നുമായി ബന്ധിപ്പിക്കാൻ പോകുന്നു അതിനാൽ ഈ പോഡ് ട്രീ അല്ലെങ്കിൽ കെറി അല്ലെങ്കിൽ 4 ആരി ട്രീ എന്താണ് ചെയ്യുന്നത് ഈ അഗ്രിഗേഷൻ ലെയറിലെ ഓരോ സ്വിച്ചും ഇതിലെല്ലാം ഒരു കോറെങ്കിലും ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു അതിനാൽ ഇവിടെ നിന്ന് ഇവിടെ വീണ്ടും ഇവിടെ ഇങ്ങോട്ട് വീണ്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് അതിനാൽ ഇത് നിങ്ങളുടെ 3 ടയർ വാസ്തുവിദ്യയുമായി വളരെ സാമ്യമുള്ളതാണ് എന്നാൽ ഇവിടെ ചില സവിശേഷതകൾ ഉണ്ട് അതിനാൽ ഈ വ്യത്യസ്ത ഗുണങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിനാൽ ഫാസി ട്രീ ഡിസിഎനിൽ നമുക്ക് ഒരു കെ ഫാറ്റി ട്രീ ഉണ്ട് മുമ്പത്തെപ്പോലെ 3 ടയറുകൾ ഉണ്ട് അവ അടിസ്ഥാനപരമായി എഡ്ജ് ടയർ അഗ്രഗേഷൻ ടയർ കോർ ടയർ എന്നിവയാണ് അതിനാൽ എഡ്ജ് ടയറിൽ ഞാൻ നേരത്തെ വിശദീകരിച്ച പോഡിൽ 2 ചതുരശ്ര സെർവറുകൾ അടങ്ങിയിരിക്കുന്നു അതിനാൽ k 4 ന് തുല്യമാണ് അതിനാൽ 4 by 2 എന്നത് 2 2 സ്ക്വയർ സെർവറുകളാണ് ഇതിനർത്ഥം ഈ വ്യത്യസ്ത പോഡുകളിൽ ഓരോന്നിലും ഞാൻ നിങ്ങൾക്ക് കാണിച്ച 4 സെർവറുകളും അതിനനുസൃതമായി 4 നെ 2 കൊണ്ട് ഹരിക്കുന്നു അതായത് 2 മുതൽ 4 വരെ പോർട്ട് സ്വിച്ചുകൾ അവിടെ ഉണ്ടാകും അതിനാൽ ഈ ഓരോ എഡ്ജ് സ്വിച്ചുകളും k ലേക്ക് 2 സെർവറുകളുമായി ബന്ധിപ്പിക്കാൻ പോകുന്നു അവ അടിസ്ഥാനപരമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതന്ന 2 സെർവറുകളും k 2 ഉം അതായത് 4 മുതൽ 2 വരെ 2 അഗ്രഗേഷൻ സ്വിച്ചുകൾക്ക് തുല്യമാണ് അതിനാൽ 2 സെർവറുകൾ താഴെ 1 മുകളിൽ 2 അഗ്രഗേഷൻ സ്വിച്ചുകൾ ഓരോ അഗ്രഗേഷൻ സ്വിച്ചും 2 എഡ്ജ് സ്വിച്ചുകളിലേക്കും 2 കോർ സ്വിച്ചുകളിലേക്കും ബന്ധിപ്പിക്കും അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ച മുൻ ഡയഗ്രാമിൽ ഞങ്ങൾ കണ്ടത് കെ 2 കൊണ്ട് അർത്ഥമാക്കുന്നത് 2 സ്ക്വയർ കോർ സ്വിച്ചുകൾ ഇതിനർത്ഥം ഓരോ 4 കീ സ്വിച്ചുകളും ഈ വ്യത്യസ്ത കീ പോഡുകളുമായി ബന്ധിപ്പിക്കും അതിനാൽ ഡിസിഎൻ എന്ന തടിമരം എന്ന ആശയം ഈ പോഡ്സ് എന്ന ആശയത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് പോലെയാണ് ഇത് അടിസ്ഥാനപരമായി കാണപ്പെടുന്നത് വീണ്ടും ഈ മൂന്ന് വ്യത്യസ്ത നിരകളുള്ള ഒരു വൃക്ഷാധിഷ്ഠിത വാസ്തുവിദ്യ പക്ഷേ ഞാൻ ഈ പരാമർശിച്ച ചില പ്രത്യേക പരിമിതികളുണ്ട് ഈ പ്രത്യേക ഫാറ്റ് ട്രീ വാസ്തുവിദ്യയെ ഒരു പ്രത്യേക 3 തരം 3 ടയർ വാസ്തുവിദ്യയാക്കുന്നു അതിനാൽ ഈ വ്യത്യസ്ത വാസ്തുവിദ്യകളിൽ ഓരോന്നിനും വ്യത്യസ്ത ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട് അതിനാൽ നമുക്ക് കൂടുതൽ നോക്കാം സെർവറിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ആവർത്തിച്ചായി നിർവചിക്കപ്പെട്ട ഘടന ഉപയോഗിക്കുന്ന ഡിസൽ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്ന മറ്റൊരു വാസ്തുവിദ്യയുണ്ട് സെർവർ മറ്റ് നിരവധി സെർവറുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കമ്മ്യൂണിക്കേഷൻ ലിങ്കുകൾ വഴി ഒരു മിനി സ്വിച്ച് ഒരു താഴ്ന്ന ലെവൽ DCell പൂർണ്ണമായി കണക്റ്റുചെയ്ത ഗ്രാഫ് രൂപീകരിക്കും കൂടാതെ ഇത്തരത്തിലുള്ള ആർക്കിടെക്ചറിൽ പരാജയത്തിന്റെ ഒരൊറ്റ പോയിന്റും ഉണ്ടാകില്ല ഇതാണ് നേട്ടവും ഇത്തരത്തിലുള്ളതും വാസ്തുവിദ്യ തെറ്റ് സഹിഷ്ണുതയുള്ളതാണ് അതിനാൽ ഈ DCell ആർക്കിടെക്ചർ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് നമുക്ക് നോക്കാം ഈ ഡിസെൽ വാസ്തുവിദ്യയിൽ നമ്മൾ കാണുന്നതുപോലെ ഈ ഡിസൽ ആർക്കിടെക്ചർ നമുക്ക് ഡിസൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ആശയം ഉണ്ടായിരിക്കും അതിനാൽ ഒരു DCell ൽ നിങ്ങൾക്ക് മിനി സ്വിച്ച് എന്ന് വിളിക്കപ്പെടുന്നു ഓരോ മിനി സ്വിച്ച് നും ഓരോ മിനി സ്വിച്ച് നും ഒരു സെർവർ ഉണ്ട് ഇത് ഒരു സെർവർ ആണ് ഇത് മറ്റൊരു സെർവർ ആണ് ഒരു DCell ലെ ഓരോ സെർവറും മറ്റൊരു DCell സെർവറുമായി ബന്ധിപ്പിക്കും ഇത് മറ്റൊരു സെർവർ ആണ് ഇത് ഒരു മിനി സ്വിച്ച് വഴി വീണ്ടും ബന്ധിപ്പിക്കപ്പെടുന്ന മറ്റൊരു സെർവർ ആയിരിക്കും ഇത് മറ്റൊരു മിനി സ്വിച്ച് ആണ് ഈ മിനി സ്വിച്ച് ഈ മിനി സ്വിച്ച് അടിസ്ഥാനപരമായി രണ്ട് വ്യത്യസ്ത സെർവറുകളുമായി ബന്ധിപ്പിക്കുന്നു വീണ്ടും നിങ്ങൾക്ക് വളരെ സമാനമായ എന്തെങ്കിലും ഉണ്ടാകും 2 സെർവറുകൾ നിങ്ങൾക്ക് ഈ പ്രത്യേക ആശയം വിപുലീകരിക്കാൻ കഴിയും കാരണം ഇത് കൂടുതൽ തെറ്റ് സഹിഷ്ണുതയുള്ള വാസ്തുവിദ്യയാണെന്ന് നിങ്ങൾക്ക് പറയാം ഈ ലിങ്ക് തകരാറിലായാൽ ഈ സെർവറുകൾക്കിടയിൽ നിങ്ങൾക്ക് മറ്റൊരു വഴി കണ്ടെത്താനാകും അതിലൂടെ ഡാറ്റ റൂട്ട് ചെയ്യാനാകും ഇതാണ് ഒരു തെറ്റ് സഹിഷ്ണുതയുള്ള വാസ്തുവിദ്യ അതിനാൽ നിങ്ങൾ ഒരു 3 സെർവർ 3 സെർവർ ആർക്കിടെക്ചറിന്റെ കാര്യം എടുക്കുന്നുവെന്ന് പറയാം അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു മിനി സ്വിച്ച് 3 വ്യത്യസ്ത സെർവറുകളാണ് ഇത് നിങ്ങളുടെ മിനി സ്വിച്ച് അത് ബന്ധിപ്പിക്കുന്ന 3 വ്യത്യസ്ത സെർവറുകൾ ഇതുപോലുള്ള മൂന്ന് വ്യത്യസ്ത സെർവറുകളുള്ള മറ്റൊരു മിനി സ്വിച്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു അതിനാൽ ഇത് ഒരു DCell ഇത് മറ്റൊരു DCell ആണ് നിങ്ങൾക്ക് മറ്റൊരു മിനി സ്വിച്ച് കൂടാതെ മൂന്ന് വ്യത്യസ്ത സെർവറുകൾ ഉപയോഗിച്ച് മറ്റൊരു DCell ഉണ്ടായിരിക്കാം അതിനാൽ ഇത് നിങ്ങളുടെ മറ്റൊരു DCell ആയിരിക്കും നിങ്ങൾക്ക് ഇത് പോലെയുള്ള 3 വ്യത്യസ്ത സെർവറുകളുള്ള ഒരു മിനി സ്വിച്ച് മറ്റൊരു DCell രൂപീകരിക്കും അതിനാൽ പ്രധാനമായും സംഭവിക്കാൻ പോകുന്നത് ഇവിടെ നിന്നുള്ള ഒരു സെർവർ ഇവിടെ മറ്റൊരു സെർവറുമായി ബന്ധിപ്പിക്കാൻ പോകുന്നു ഇവിടെയുള്ള ഈ സെർവർ ഇവിടെ മറ്റൊന്നിലേക്ക് കണക്റ്റുചെയ്തേക്കാം ഇത് ഇവിടെ മറ്റൊന്നിലേക്ക് ബന്ധിപ്പിക്കാം ഇത് ഇതിലേക്ക് ബന്ധിപ്പിക്കാം ഇതും ഇതും ഇതുമായി ബന്ധിപ്പിക്കാം ഇതുപോലെ ഇത് തുടരും അതിനാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനാകുന്നതുപോലെ ഇത് വീണ്ടും ഡിസിഎല്ലിന്റെ വളരെ മോടിയുള്ള സഹിഷ്ണുതയുള്ള വാസ്തുവിദ്യയാണ് ഇത് ഡിസെൽ ആർക്കിടെക്ചർ എന്നറിയപ്പെടുന്നു അതിനാൽ ഈ ഡി സെൽ ആർക്കിടെക്ചറിന് വ്യത്യസ്ത ഗുണങ്ങളുണ്ട് അതിനാൽ ഞാൻ ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്ന ഈ വ്യത്യസ്ത സ്വഭാവങ്ങളിൽ ചിലത് ഇവയാണ് അതിനാൽ സെർവറിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിന് ഒരു DCell അടിസ്ഥാനപരമായി ആവർത്തിച്ചുള്ള നിർവചിക്കപ്പെട്ട ഘടന ഉപയോഗിക്കുന്നു അവിടെ സെർവർ മറ്റ് നിരവധി സെർവറുകളുമായി പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ വ്യത്യസ്ത ആശയവിനിമയ ലിങ്കുകൾ വഴി ഒരു മിനി സ്വിച്ച് താഴ്ന്ന നിലയിലുള്ള DCells പൂർണ്ണമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഗ്രാഫ് ഉണ്ടാക്കുന്നു കൂടാതെ ഈ തെറ്റ് സഹിഷ്ണുതയുള്ള വാസ്തുവിദ്യയുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിനാൽ ഇവ വീണ്ടും ഒരു DCell DCN ആർക്കിടെക്ചറിന്റെ വ്യത്യസ്ത ഗുണങ്ങളാണ് B ക്യൂബ് വാസ്തുവിദ്യ എന്നറിയപ്പെടുന്ന അവസാനത്തേത് നമുക്ക് നോക്കാം ഇവിടെ B ക്യൂബ് വാസ്തുവിദ്യയിൽ ഞങ്ങൾ B ക്യൂബ് വാസ്തുവിദ്യ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു B ക്യൂബ് വാസ്തുവിദ്യയിൽ നിങ്ങൾക്ക് മോഡുലാർ ഡാറ്റാ സെന്റർ MDC മോഡുലാർ ഡാറ്റ സെന്റർ എന്നറിയപ്പെടുന്ന എന്തെങ്കിലും ആശയങ്ങൾ ഉണ്ട് അതിനാൽ ഈ മോഡുലാർ ഡാറ്റാ സെന്ററിന് വ്യത്യസ്ത BCubes ഉണ്ട് ഇവ വ്യത്യസ്ത B ക്യൂബ് ആണെന്നും ഇത് ഒരു ക്യൂബ് ആണെന്നും പറയാം അതിനാൽ B ക്യൂബ് ആർക്കിടെക്ചറിൽ നിങ്ങൾക്ക് ഈ വ്യത്യസ്ത സ്വിച്ചുകളുണ്ട് ഇവ BCBC യുടെ മറ്റൊരു തലവുമായി ബന്ധിപ്പിക്കും ഇത് നിങ്ങളുടെ B ക്യൂബ് 0 ആണെന്ന് നമുക്ക് പറയാം ഇത് നിങ്ങളുടെ B ക്യൂബ്0 1 എന്ന് പറയാം ഇത് 0 0 ഇത് 0 1 B ക്യൂബ് 0 2 എന്നിങ്ങനെയാണ് അതിനാൽ നിങ്ങൾക്ക് മറ്റൊരു B ക്യൂബ് മറ്റൊരു B ക്യൂബ് എന്നിവ ഉണ്ടാകും കൂടാതെ ഇത് നിങ്ങളുടെ B ക്യൂബ് 1 ആകും കൂടാതെ നിങ്ങൾക്ക് 1 പോലും ആകാം അതിനാൽ ഈ പ്രത്യേക തലത്തിലുള്ള നിങ്ങളുടെ വ്യത്യസ്ത സ്വിച്ചുകൾ ഇതാണ് നിങ്ങളുടെ ലെവൽ 1 ആയി മാറുന്നു ഇത് നിങ്ങളുടെ ലെവലായി മാറുന്നു 0 അതിനാൽ ഈ മിനി സ്വിച്ചുകളിൽ നിന്ന് ഇവ ലെവൽ 1 ലേക്ക് ബന്ധിപ്പിക്കാൻ പോകുന്നില്ല പക്ഷേ ഇവിടെ നിന്ന് ഇവ ബന്ധിപ്പിക്കാൻ പോകുന്നു അതിനാൽ ഇവിടെ ഇത് സംഭവിക്കാൻ പോകുന്നത് ഇവനല്ല ഇതൊന്നുമല്ല അതിനാൽ ഇവയുമായി ബന്ധിപ്പിക്കാൻ പോകുന്നത് മാത്രമാണ് നിങ്ങളുടെ B ക്യൂബ് വാസ്തുവിദ്യ ഇങ്ങനെ കാണപ്പെടുന്നത് അതിനാൽ ഞങ്ങൾ കൂടുതൽ മുന്നോട്ട് പോയി B ക്യൂബ് ആർക്കിടെക്ചറിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നോക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു ഇത് ഒരു സ്വിച്ച് കേന്ദ്രീകൃത പരിശീലനത്തേക്കാൾ ഒരു സെർവർ കേന്ദ്രീകൃത സമീപനമാണ് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ച മോഡുലാർ ഡാറ്റാ സെന്ററിൽ ഇന്റലിജൻസ് സ്ഥാപിക്കുന്നു അനുബന്ധ സെർവറുകൾ ഏതെങ്കിലും ജോടി സെർവറുകൾക്കിടയിൽ ഒന്നിലധികം സമാന്തര ഹ്രസ്വ പാതകൾ നൽകുന്നു എഡ്ജ് ഡിസോയിന്റ് സമ്പൂർണ്ണ ഗ്രാഫുകൾ നിർമ്മിക്കുകയും ട്രീ വ്യാപിക്കുന്ന ഒന്നിലധികം എഡ്ജ് ഡിസോയിന്റ് സെർവർ രൂപപ്പെടുകയും ചെയ്യുന്നു അതിനാൽ ഒരു പ്രത്യേക തരം റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ഉണ്ട് അത് ഈ ബിസിബ്യൂബുകളെ പിന്തുണയ്ക്കുന്നു ഇത് ബിഎസ്ആർ എന്നറിയപ്പെടുന്ന ബി ക്യൂബ് സോഴ്സ് റൂട്ടിംഗ് പ്രോട്ടോക്കോൾ ആണ് ഇത് അടിസ്ഥാനപരമായി ഈ പ്രത്യേക ബിസ്യൂബ് ആർക്കിടെക്ചറിൽ റൂട്ടിംഗിനെ സഹായിക്കുന്നു ബി ക്യൂബ് ആർക്കിടെക്ചറിന്റെ ഈ സവിശേഷതകളുടെ ചില ഹൈലൈറ്റുകളാണ് ഞാൻ വരച്ചതും അവ എങ്ങനെ കാണപ്പെടുന്നുവെന്ന് കാണിച്ചതും അതിനാൽ നമുക്ക് ഇപ്പോൾ വളരെ വേഗത്തിൽ മറ്റ് വ്യത്യസ്ത ആവശ്യകതകളിലൂടെ കടന്നുപോകാം അതിനാൽ ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിന് റൂട്ടറുകൾ സ്വിച്ചുകൾ മോഡമുകൾ മുതലായവ പോലുള്ള വിവിധ നെറ്റ്വർക്കിംഗ് ഉപകരണങ്ങൾ ആവശ്യമാണ് ഐപിവി 4 ഐപിവി 6 പിന്തുണയ്ക്കുന്ന ഐപി അഡ്രസ്സിംഗ് സ്കീമിനെ അഭിസംബോധന ചെയ്യുന്ന സ്കീമുകൾ പിന്തുണയ്ക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർനെറ്റിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇപ്പോൾ 2 ഓപ്ഷനുകൾ മാത്രമേയുള്ളൂ അതിനാൽ IPV4 അല്ലെങ്കിൽ IPV6 അടിസ്ഥാനമാക്കിയുള്ള നെറ്റ്വർക്ക് അഡ്രസിംഗ് സ്കീം അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന നെറ്റ്വർക്ക് സുരക്ഷാ പ്രോട്ടോക്കോളുകൾ അൽഗോരിതങ്ങൾ ഫയർവാളുകൾ മുതലായവ ഈ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളിൽ ഇതിനകം തന്നെ നിങ്ങൾക്കുണ്ട് ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളുടെ വ്യത്യസ്ത വെല്ലുവിളികളിൽ സ്കേലബിളിറ്റി വെല്ലുവിളികൾ ഉൾപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വലുതാക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിസ്സാരമല്ലെങ്കിൽ നിങ്ങൾക്ക് ധാരാളം വ്യത്യസ്ത കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് കൂടാതെ സെർവർ ടു സെർവർ കണക്റ്റിവിറ്റി മോശമാണ് കാരണം ഇത് വ്യത്യസ്തമായി വിതരണം ചെയ്ത സെർവറുകൾക്കും വിതരണത്തിനും ഇടയിലുള്ള വേഗത്തിലുള്ള കണക്റ്റിവിറ്റിയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് Dcells Bcubes racks അങ്ങനെ ഉം സ്റ്റാറ്റിക് റിസോഴ്സ് അസൈൻമെന്റ് ഒരു വെല്ലുവിളിയാണ് അതിനാൽ ഈ ക്ലയന്റുകളിൽ നിന്നുള്ള ലഭ്യതയും ആവശ്യകതകളും അനുസരിച്ച് നിങ്ങൾ ഈ വ്യത്യസ്ത വിഭവങ്ങൾ നിയോഗിക്കേണ്ടതുണ്ട് റിസോഴ്സ് വിഘടനം റിസോഴ്സിന്റെ ചില ഭാഗം ഒരു സ്ഥലത്ത് കിടക്കുന്നു റിസോഴ്സിന്റെ മറ്റൊരു ഭാഗം മറ്റൊരു സ്ഥലത്ത് കിടക്കുന്നതിനാൽ വിതരണം ചെയ്ത വിഭവങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യേണ്ടതായി വരും തെറ്റായ സഹിഷ്ണുത ഒരു വെല്ലുവിളിയാണ് അതിനാൽ നെറ്റ്വർക്കിന്റെ ചില ഭാഗങ്ങൾ സിസ്റ്റം മൊത്തത്തിൽ പ്രവർത്തനരഹിതമായാൽ അത് കണ്ടെത്താനും അതിൽ നിന്ന് കരകയറാനും കഴിയും മറ്റ് വെല്ലുവിളികൾ IIoT ലേക്ക് കണക്റ്റുചെയ്യുന്ന ഡാറ്റാ സെന്ററുമായി ബന്ധപ്പെട്ടതാണ് IIoT ഡാറ്റ കേന്ദ്രീകൃതമാണ് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് സ്വകാര്യത പ്രശ്നങ്ങൾ ഉണ്ട് വ്യത്യസ്ത സെൻസറുകൾ ഘടിപ്പിച്ചിട്ടുള്ള വ്യാവസായിക യന്ത്രങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ ലഭ്യത വളരെ പ്രധാനമാണ് ഈ യന്ത്രത്തിന്റെ ഉയർന്ന ലഭ്യത എന്നാൽ ഡാറ്റ ഉത്പാദിപ്പിക്കുന്ന ഈ വ്യത്യസ്ത സെൻസറുകളുടെ ഉയർന്ന ലഭ്യത എന്നാണ് അതിനാൽ വ്യത്യസ്ത ആവശ്യകതകളെ അടിസ്ഥാനമാക്കി ഏത് സമയത്തും ഈ ഡാറ്റയുടെ ലഭ്യത വളരെ പ്രധാനമാണ് ഡാറ്റ സംഭരണം പ്രധാനമാണ് IIoT യുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് നിർമ്മിക്കുന്നത് വളരെ പ്രധാനമാണ് അത് വെല്ലുവിളി നിറഞ്ഞതാണ് ഡാറ്റയുടെ പശ്ചാത്തലത്തിൽ IIoT ധാരാളം ഡാറ്റ സൃഷ്ടിക്കുന്നു അത് അന്തിമ ഉപയോക്താവിൽ നിന്ന് തുടർച്ചയായി പഠിക്കേണ്ടതുണ്ട് അന്തിമ ഉപയോക്താവിൽ നിന്ന് ലഭിക്കുന്നു കൂടാതെ വ്യത്യസ്ത അൽഗോരിതങ്ങൾ ബുദ്ധിപരമായ അൽഗോരിതം മെഷീൻ ലേണിംഗ് എന്നിവ ഉപയോഗിച്ച് അർത്ഥവത്താക്കേണ്ടതുണ്ട് ഈ പ്രത്യേക ഡാറ്റയുടെ സംഭരണവുമായി ബന്ധപ്പെട്ട് അൽഗോരിതങ്ങളും മറ്റും വ്യത്യസ്ത വെല്ലുവിളികളും സംഭരണം ഉപഭോക്തൃ പ്രേരിതമോ അല്ലെങ്കിൽ എന്റർപ്രൈസസിന്റെ ആവശ്യകതകളോ അടിസ്ഥാനമാക്കിയുള്ളതാകാം അതിനാൽ വ്യത്യസ്ത ഡാറ്റയും സംഭരണ ആവശ്യകതകളും ഞങ്ങൾ IIoT യുമായി ഡാറ്റ സെന്ററിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വെല്ലുവിളികളും ഉണ്ട് സുരക്ഷാ പ്രശ്നങ്ങൾ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഏതെങ്കിലും നെറ്റ്വർക്കിലും ഉണ്ട് അതും റിസോഴ്സ് കൺസ്ട്രെയിൻ IIoT കണക്ഷനുകൾക്കൊപ്പം ഇവിടെ സുരക്ഷ ഒരു വലിയ പ്രശ്നമാണ് അത് വേണ്ടത്ര കൈകാര്യം ചെയ്യേണ്ടിവരും ഈ ഡാറ്റ കടന്നുപോകുന്നതും ഈ ഡാറ്റ പോകുന്നതും നെറ്റ്വർക്കിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കടന്നുപോകുന്നതും ആയ IIoT ഡാറ്റയിൽ സ്വകാര്യത പ്രശ്നങ്ങൾ പരമപ്രധാനമാണ് കാരണം ഈ ഡാറ്റയ്ക്ക് ചിലപ്പോൾ സെൻസിറ്റീവ് ഡാറ്റ ഉണ്ടായിരിക്കും ഈ ഡാറ്റയുടെ സ്വകാര്യത വളരെ പ്രധാനമാണ് അതിനാൽ IIoT യുടെ പശ്ചാത്തലത്തിൽ ഡാറ്റ സ്വകാര്യതാ പരിരക്ഷയുടെ സ്വകാര്യത DCN മുള്ള പരസ്പരബന്ധം ഒരു പ്രധാന വെല്ലുവിളിയാണ് ഡാറ്റയുടെ ലഭ്യത ഐഐഒടിയുമായുള്ള ഡാറ്റയുടെ ഉയർന്ന ലഭ്യത ഡിസിഎനുമായുള്ള ഐഐഒടിയുടെ കണക്റ്റിവിറ്റി വളരെ പ്രധാനപ്പെട്ടതാക്കും പരസ്പരബന്ധിതമായ എണ്ണമറ്റ ഉപകരണങ്ങളുടെ കണക്റ്റിവിറ്റി പോലുള്ള വ്യത്യസ്ത ആവശ്യകതകൾ ശ്രദ്ധിക്കുന്നു സുരക്ഷാ മാനേജ്മെന്റിന്റെ സങ്കീർണ്ണത സുരക്ഷാ വെല്ലുവിളികൾ തത്സമയ ബിസിനസ്സ് പ്രക്രിയകൾ വ്യക്തിഗത ഡാറ്റ സുരക്ഷ മുതലായവയുടെ ആഘാതം വർദ്ധിക്കുന്നത് ഡിസിഎന്റെ പശ്ചാത്തലത്തിൽ ഉയർന്ന ലഭ്യതയും ഐഐഒടിയും സംബന്ധിച്ച് വ്യത്യസ്ത വെല്ലുവിളികളാണ് സ്റ്റോറേജ് മാനേജ്മെന്റ് ഇവിടെ പ്രധാനമാണ് നമ്മൾ സംസാരിക്കുന്നത് IIoT ൽ നിന്നുള്ള വലിയ അളവിലുള്ള ഡാറ്റയെക്കുറിച്ചാണ് നിങ്ങൾ എങ്ങനെയാണ് ചെലവ് കുറഞ്ഞ രീതിയിൽ ഡാറ്റ സംഭരിക്കുന്നത് എന്നത് വളരെ പ്രധാനമാണ് അതിനാൽ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകൾ വ്യത്യസ്ത ബാൻഡ്വിഡ്ത്ത് ആവശ്യകതകളെ പിന്തുണയ്ക്കുന്നു കാരണം ഇത് ഒരു നെറ്റ്വർക്കായതിനാൽ അവരുടെ ബാൻഡ്വിഡ്ത്ത് പാറ്റേൺ ലഭ്യതയിലും മറ്റും ബൃഹത്തായ മാറ്റങ്ങൾ ഉണ്ടാകാം അതിനനുസരിച്ച് ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിന്റെ പ്രകടനവും മാറും നമ്മൾ IIoT യെക്കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ IIoT പൂർണ്ണമായും വിതരണം ചെയ്യപ്പെട്ട ഒരു സിസ്റ്റമാണ് കൂടാതെ സിസ്റ്റത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഈ വ്യത്യസ്ത ബാൻഡ്വിഡ്ത്ത് ആവശ്യകതകളും കാലക്രമേണ മാറിക്കൊണ്ടിരിക്കും പ്രത്യേക ആവശ്യകതകൾ വളരെ പ്രധാനമാണ് അതിനാൽ അവസാനമായി ഞാൻ സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നു ഒരു സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിൽ ഞങ്ങൾ സംസാരിക്കുന്നത് വെർച്വലൈസ് ചെയ്ത ഡാറ്റാ സെന്ററുകളെക്കുറിച്ചാണ് അടിസ്ഥാനപരമായി ക്ഷമിക്കണം വെർച്വലൈസ് ചെയ്ത സന്ദർഭങ്ങൾക്കപ്പുറം ഭൌതികമായതിനപ്പുറം ലോജിക്കൽ സന്ദർഭങ്ങൾ കൂടാതെ ഈ വിർച്ച്വലൈസ്ഡ് സന്ദർഭങ്ങളെ നിങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കുകയും നിർദ്ദിഷ്ട ആവശ്യകതകൾ നിറവേറ്റുകയും ചെയ്യുന്നു എന്നതാണ് സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ഡാറ്റാ സെന്ററിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതിനാൽ ഒരു സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട നെറ്റ്വർക്കിൽ പ്രധാനമായും നമ്മൾ സംസാരിക്കുന്നത് നിയന്ത്രണ തലം ഡാറ്റാ തലത്തിൽ നിന്ന് വേർതിരിക്കുന്നതിനെക്കുറിച്ചാണ് അതിനാൽ ഡാറ്റാ തലം നിയന്ത്രണ തലം എന്നിവ പരമ്പരാഗതമായി ഒരു സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ആർക്കിടെക്ചർ സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ഡാറ്റാ സെന്റർ നെറ്റ്വർക്ക് എന്നിവയിൽ ഒരുമിച്ച് ചേർക്കുന്നു അതിനാൽ ആവശ്യകതകളിലെ ചലനാത്മക ആവശ്യകതകളുടെ മാറ്റങ്ങളെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു കേന്ദ്രീകൃത രീതിയിൽ ഫലപ്രദമായി ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും കൂടാതെ ഡാറ്റാ സെന്ററിന്റെ വിവിധ ഭാഗങ്ങളിലെ വ്യത്യസ്ത ജോലികളുടെ നിർവ്വഹണം നിങ്ങൾക്ക് മാറ്റാൻ കഴിയും അതിനാൽ ഏത് നെറ്റ്വർക്ക് വിർച്ച്വലൈസേഷൻ സ്റ്റോറേജ് വെർച്വലൈസേഷൻ സെർവർ വിർച്ച്വലൈസേഷൻ തുടങ്ങിയവ നെറ്റ്വർക്ക് സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ഡാറ്റാ സെന്ററുകൾ നിർമ്മിക്കുന്നതിനും ബിസിനസ്സ് ആവശ്യകതകൾ ബിസിനസ് ലോജിക് പരിപാലിക്കുന്നതിനും ഇവയെല്ലാം വളരെ പ്രധാനമാണ് അതിനാൽ ഒരു സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ഡാറ്റാ സെന്ററിലെ നെറ്റ്വർക്ക് വിർച്ച്വലൈസേഷൻ ലെയർ എന്നിവയ്ക്ക് പുറമേ ഒരു പ്രത്യേക ബിസിനസ് ലോജിക് ലെയറും ഉണ്ടായിരിക്കണം അതിനാൽ നിയന്ത്രണവും ഡാറ്റ പ്ലാനുകളും വേർതിരിക്കുന്നതും ഇലാസ്തികതയുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതും വളരെ പ്രധാനമാണ് അതിനർത്ഥം ആവശ്യകതകളുടെ വർദ്ധനവ് ആവശ്യകതകളുടെ വ്യാപ്തി എന്നിവയെ ആശ്രയിച്ച് ചലനാത്മകമായി വിഭവങ്ങൾ ഇലാസ്റ്റിക് പ്രാവീണ്യമുള്ളതും അന്തിമ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതുമാണ് അതിനാൽ ചടുലത വളരെ പ്രധാനപ്പെട്ട ഒരു സ്വത്താണ് ഒരു ഡാറ്റാ സെന്ററിന്റെ സ്വത്ത് ലഭിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ സംസാരിച്ച ഒരു കാര്യമാണിത് പൊതുവേ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കും സോഫ്റ്റ്വെയർ ഡാറ്റാ സെന്ററിനും ചടുലതയ്ക്കും വളരെ പ്രാധാന്യമുണ്ട് അത് പിന്തുണയ്ക്കേണ്ടതാണ് അതിനാൽ ഏത് സമയത്തും ഏത് സെർവറിലും ഏത് തരത്തിലുള്ള സേവനത്തെയും പിന്തുണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ചടുലത ആവശ്യകതകൾ നിറവേറ്റുന്നത് ഏതൊരു ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യകതയാണ് തീർച്ചയായും സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ഡാറ്റാ സെന്ററിനും അതിനാൽ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളുടെ ഈ വ്യത്യസ്ത വ്യത്യാസങ്ങളിൽ ചിലത് ഇവയാണ് അടിസ്ഥാനപരമായി ഈ പ്രത്യേക പ്രഭാഷണം നിങ്ങൾക്ക് ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളുടെ ഒരു അവലോകനവും അത് എങ്ങനെയാണ് സ്ഥിതിചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും ഈ വ്യത്യസ്തമായ ചില പരാമർശങ്ങളിലൂടെയെങ്കിലും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും ഐഐഒടിയുമായി ബന്ധപ്പെട്ട് ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളുടെ വ്യത്യസ്ത വെല്ലുവിളികൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ചും നിങ്ങൾ ഐഐഒടിയുടെ പശ്ചാത്തലത്തിൽ സംസാരിക്കുമ്പോൾ അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് ഡാറ്റാ സെന്റർ നെറ്റ്വർക്കിനായി ലഭ്യമായ വ്യത്യസ്ത ആർക്കിടെക്ചറുകളെക്കുറിച്ചും അവ എങ്ങനെ ഉപയോഗിക്കാനാകുമെന്നും ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതിനാൽ ഈ പ്രത്യേക പ്രഭാഷണം ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളുടെയും അവയുടെ അനുബന്ധ വാസ്തുവിദ്യകളുടെയും വെല്ലുവിളികളുടെയും ചില അവലോകനങ്ങൾ നേടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൂടാതെ ഡാറ്റാ സെന്റർ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള ഈ ഉയർന്ന തലത്തിലുള്ള ധാരണ വ്യവസായ വിഭാഗത്തിന്റെ നിർദ്ദിഷ്ട ആവശ്യകതകളിലേക്ക് ചിതറിക്കിടക്കുന്നതിനായി IIoT സിസ്റ്റങ്ങൾ സമഗ്രമായി നിർമ്മിക്കാൻ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ ഓർക്കേണ്ടതുണ്ട് പിന്തുണയ്ക്കാൻ പോകുന്നിടത്ത് നിങ്ങൾ നിർമ്മിക്കുകയാണ്